എല്ലാവർക്കും സ്വാഗതം ഒക്യൂലെസിക്സ് അഥവാ നേത്രത്തെ സംബന്ധിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ ആണ് ഈ ഭാഗത്ത് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാവ പ്രകടമായ ഭാഗമാണ് നേത്രങ്ങൾ നമ്മുടെ ആശയവിനിമയത്തിൽ കണ്ണുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് ഒക്യുലസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുടെ സാഹിത്യപരമായ വ്യാഖ്യാനങ്ങളുടെ കേന്ദ്രം കൂടിയാണ് കണ്ണുകൾ ആത്മാവിന്റെ ജാലകം എന്നാണ് അവയെ വിശേഷിപ്പിക്കുന്നത് കണ്ണുകളെ സംബന്ധിച്ചുള്ള ഒട്ടനേകം ശൈലികൾ എല്ലാ ഭാഷയിലും ഉണ്ട് ഉദാഹരണത്തിന് കണ്ണ് കാട്ടുക കഴുകൻ കണ്ണുകൾ തുടങ്ങിയവ കണ്ണുകൾ തമ്മിൽ സംവദിക്കുകയും ചില സമയം നേത്രങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തെ ഏറ്റവും സത്യസന്ധമായ സംഭാഷണ രീതിയായി കരുതുകയും ചെയ്യാം തലച്ചോർ വഴി കടന്നു പോകുകയും വരികയും ചെയ്യുന്ന കേവലം ഉദ്ധീപനം എന്ന പ്രാഥമിക കൃത്യത്തേക്കാൾ ഉപരിയായി നിൽക്കുന്നു കണ്ണുകൾ വഴിയുള്ള സംസാരം ചിലപ്പോൾ നമ്മുടെ വികാരങ്ങളെ പുഞ്ചിരി തുടങ്ങിയവയിൽ കൂടി മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ നേത്രങ്ങൾ വികാരത്തെ സത്യസന്ധമായി പുറത്ത് കാണിക്കുന്നു ഒരു വിഷയത്തെ കുറിച്ചുള്ള ധാരണയുടെ നിലയെ മനസ്സിലാക്കുവാൻ ഒക്യൂലെസിക്സ് സഹായിക്കുന്നു ഒരു സമ്പർക്കത്തിൽ നമ്മുടെ ഇടയിലേക്ക് വരുന്ന കാര്യത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ് നാം പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രതികരണം വേഗത്തിൽ മനസ്സിലാക്കുവാൻ കണ്ണുകൾ സഹായിക്കുന്നു ഒരു സംഭാഷണം തുടങ്ങുവാനുള്ള സമയം അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട സമയം എന്നിവയെ മനസ്സിലാക്കുവാനും അത് സഹായകമാകുന്നു അതേ സമയം വിശ്വാസ യോഗ്യമായ കാര്യങ്ങളാണ് നേത്രങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് നല്ല ഒരു നേത്ര സമ്പർക്കം വിശ്വാസ്യത ആത്മാർത്ഥത സത്യസന്ധത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഒരാളുടെ താത്പര്യത്തെയും ഇത് വ്യക്തമാക്കുന്നു നേത്ര സമ്പർക്കം മുഖഭാവങ്ങൾ എന്നിവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും നേത്രങ്ങൾക്ക് മറ്റു മുഖ ഭാവങ്ങളിൽ നിന്നും സ്വതന്ത്രമായി നിന്ന് കൊണ്ട് ആശയ വിനിമയം ചെയ്യാൻ സാധിക്കും എന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട് പരസ്പരം ആശയവിനിമയം നടത്തുന്നവർ തമ്മിൽ പാലിക്കുന്ന അകലത്തെ പറ്റിയുള്ള പഠനത്തെ കുറിച്ച് ചർച്ചയിൽ പറഞ്ഞത് പോലെ നേത്ര സമ്പർക്കം നോട്ടം മുതലായവയുടെ സാംസ്കാരിക വ്യാഖ്യാനത്തിന്റെ അർത്ഥവും പ്രധാനമാണ് ഉദാഹരത്തിന് അടുത്ത കാലം വരെ ശ്രോതാവ് സംസാരിക്കുന്ന ആളോടുള്ള ആദര സൂചകമായി നേത്ര സമ്പർക്കം ഒഴിവാക്കി അയാളുടെ കഴുത്തിലേക്ക് നോക്കണം എന്നാണ് ജപ്പാനിൽ പഠിപ്പിച്ചിരുന്നത് ഇതേ പ്രക്രിയ ചൈനീസ് സംസ്കാരത്തിലും ഇന്തോനേഷ്യ പശ്ചിമേഷ്യൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും കാണാവുന്നതാണ് എസിലും വടക്കൻ യൂറോപ്പിലും സംസാരിക്കുന്ന ആളുടെ കണ്ണുമായി ബന്ധം സ്ഥാപിക്കുവാൻ പഠിപ്പിക്കുന്നു എന്തെന്നാൽ നേത്ര സമ്പർക്കം എന്നത് ആത്മവിശ്വാസം സുതാര്യത എന്നിവയുടെ ലക്ഷണമായി കണക്കാക്കുന്നു ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വിവിധ സംസ്കാരങ്ങളിൽ വേറിട്ട് നിൽക്കുമ്പോൾ മതം സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം തുടങ്ങിയവയിൽ ഉള്ള വ്യത്യാസങ്ങൾ എന്നിവ പ്രാധാന്യം അർഹിക്കുന്നു എന്നിരുന്നാലും ലോക രാഷ്ട്രീയത്തിൽ ഇത് ഒന്നാണ് ഒക്യൂലെസിക്സിന്റെ എം എസ് വ്യാഖ്യാനങ്ങൾ ഒരു പക്ഷെ സംശയത്തിന് ഇടവരുത്താവുന്നതാണ് 1970 കളിൽ ഉണ്ടായ ഒരു കാര്യം ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു യു എസ് സാമ്പത്തിക രംഗം ചൈനയോട് അടുക്കുവാൻ ശ്രമിക്കുകയും ഇരുമ്പു മറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന ചിത്രം മായ്ക്കാൻ ചൈനയും ശ്രമിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു അത് സെനറ്റ് അംഗങ്ങൾ വ്യാപാരികൾ എന്നിവർ അടങ്ങുന്ന പ്രഗൽഭരായ അമേരിക്കൻ പ്രതിനിധി സംഘത്തെ വ്യാപാര ഇടപാടുകളെ കുറിച്ച് തീരുമാനം ഉണ്ടാക്കുവാൻ ചൈനയിലേക്ക് വിടുകയുണ്ടായി എന്നാൽ രണ്ട് ദിവസം ബീജിങ്ങിൽ താമസിച്ച ശേഷം ചൈനക്കാർ വിശ്വസ്തരല്ല എന്നൊരു അവലോകനത്തിൽ അമേരിക്കൻ പ്രതിനിധി സംഘം എത്തിച്ചേർന്നു ഇത് രണ്ട് രാജ്യങ്ങളുടെയും നയങ്ങളെ ബാധിച്ചു അതിനാൽ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ആശയവിനിമയ വിദഗ്ദ്ധനെ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ ചൈനയിലേക്ക് പറഞ്ഞയച്ചു അമേരിക്കൻ സംഘവുമായി ചൈനക്കാർ നേത്ര സമ്പർക്കം പുലർത്താത്തതാണ് അവരുടെ തീരുമാനത്തിന് പിന്നിലെ കാര്യം എന്ന് അയാൾ കണ്ടെത്തി അമേരിക്കക്കാരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക എന്നുദ്ദേശിച്ചായിരുന്നു അവർ കണ്ണിൽ നോക്കാതിരുന്നത് എന്നാല് അമേരിക്കൻ സംഘത്തിന്റെ കാഴ്ചപ്പാടിൽ കണ്ണിൽ നോക്കാതെയുള്ള സംസാരം അവർ എന്തോ മറക്കുന്നത് കൊണ്ടാണെന്ന് ആയിരുന്നു അതിനാൽ അവർ അത് വിശ്വസിച്ചില്ല ഓരോ സംസ്കാരത്തിലും ഒരു വ്യാഖ്യാനം ഉണ്ട് എന്നാൽ നേത്ര സമ്പർക്കം എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ മുൻനിർത്തി ആണ് പാശ്ചാത്യ സംസ്കാരത്തിൽ പഠിച്ചു വന്നതും അത്തരത്തിൽ ഉള്ള സംഘടനകളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ കാഴ്ചപ്പാടിനെ ആധാരമാക്കി ആണ് ഞാൻ സംസാരിക്കുന്നത് വ്യാഖ്യാനങ്ങളിൽ ഇത് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നോ ഇത് സാർവത്രികമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നോ എന്റെ വാക്കുകൾ കൊണ്ട് അർഥമാക്കുന്നില്ല കണ്ണുകൾ കൊണ്ട് ശ്രദ്ധിക്കുക എന്നൊരു രസകരമായ ശൈലിയുണ്ട് കാരണം കണ്ണിൽ നോക്കി ഒരാളെ നാം കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തല്പരർ അല്ലായെന്ന് മറ്റെയാൾക്ക് തോന്നുകയില്ല അതുകൊണ്ട് നേരിട്ടുള്ള നേത്ര സമ്പർക്കം നമ്മുടെ ചിന്തയും സമീപനവും വ്യക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇത് സംഭാഷണത്തേ നിയന്ത്രിക്കുന്നതൊടൊപ്പം വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യം ബന്ധം എന്നിവയെ കുറിച്ചുള്ള സൂചനയും നൽകുന്നു ഒരാളെ ആദ്യമായി കാണുമ്പോൾ ഇത്തരത്തിലുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ നാം ഒരു നിഗമനത്തിൽ എത്തിചേരുന്നു അതേ സമയം സംഭാഷണം ആരംഭിക്കുമ്പോൾ നേത്ര സമ്പർക്കത്തെ മുൻ നിർത്തി നാം എത്തിയ നിഗമനം ഊട്ടി ഉറപ്പിക്കുകയോ തിരുത്തുകയോ ചെയ്യുന്നു കാരണം പരസ്പരം ഉള്ള നേത്ര സമ്പർക്കവും നോട്ടവും വഴി ആണ് ഒരു ചർച്ചയിൽ നമുക്കുള്ള ബോധം അതിൽ ചേരുവാൻ നമുക്കുള്ള സന്നദ്ധത എന്നിവ പ്രകടമാക്കുന്നത് ഒരാളുടെ കണ്ണിൽ നോക്കാതെ ഉള്ള സംസാരം തികച്ചും വിപരീതമായ അർഥം നൽകുന്നു ഈ ദൃശ്യം നേത്ര സമ്പർക്കത്തിന്റെ പ്രാധാന്യത്തെ രസകരമായി അവതരിപ്പിക്കുന്നു വളരെ നല്ല മനുഷ്യൻ വളരെ നല്ല മനുഷ്യൻ പക്ഷേ ഇത് വാസ്തവമാണ് ശരീരഭാഷ വിദഗ്ധൻ ആയ ടോണിയ റൈമാനുമായി ഞങ്ങൾ സംസാരിച്ചു അവർ രണ്ടുപേരും കണ്ണിൽ നോക്കുന്നില്ല നിങ്ങൾ കാണുന്ന പോലെ ട്രംപ് താഴേക്ക് നോക്കുന്നു ഒബാമയും താഴേക്ക് തന്നെ നോക്കുന്നു അവർ ഹസ്തദാനത്തിലൂടെ പരസ്പരം ആദരവ് വ്യക്തമാക്കി എങ്കിലും നേത്ര സമ്പർക്കം കൊണ്ട് ആദരവ് സൂചിപ്പിക്കുന്നില്ല കയ്യിലും പ്രധാന്യം കണ്ണിൽ നോക്കുക എന്നതായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാഷ ഹസ്തദാനം എന്നിവ കൊണ്ട് രണ്ട് രാഷ്ട്രീയ വൻമരങ്ങൾ പരസ്പര ബഹുമാനം വ്യക്തമാക്കി എങ്കിലും അതിനു പിന്നിലെ സത്യം വെളിപ്പെടുത്തുന്നതാണ് നേത്ര സമ്പർക്കത്തിൽ വന്ന വീഴ്ച നേത്ര സമ്പർക്കം എന്നത് ഒരാളെ നേരിട്ട് നോക്കുക എന്നതാണ് എന്നാല് വീക്ഷിക്കുക എന്നത് ഒരാളെയോ വസ്തുവിനെയോ നോക്കുക എന്നതാണ് രണ്ട് പേർ അല്ലെങ്കിൽ ചെറിയ ഒരു സംഘം എന്നിവയിൽ നാം സംസാരിക്കുമ്പോൾ നേരിട്ടുള്ള നേത്ര സമ്പർക്കം തികച്ചും സ്വാഭാവികമാണ് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ 61 സമയവും നേത്ര സമ്പർക്കം പുലർത്തുന്നു ഇതിൽ പകുതി സമയം പരസ്പരം കണ്ണിൽ നോക്കുന്നു കൂടാതെ ആളുകൾ കേൾക്കുമ്പോൾ 75വും സംസാരിക്കുമ്പോൾ 41 വും നേത്ര സമ്പർക്കം പുലർത്തുന്നു അത് കൊണ്ടാണ് ആദ്യം പറഞ്ഞത് പോലെ കാതിൽ കൂടി മാത്രമല്ല കണ്ണിൽ കൂടിയും ശ്രദ്ധിക്കാൻ സാധിക്കണം നോട്ടത്തിന്റെ ദൈർഖ്യം മാറിക്കൊണ്ടിരിക്കും വിവിധ തരം നോട്ടത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഈ സന്ദർഭത്തിൽ നാം സംസാരിക്കുന്നത് ഒരാളുടെ കണ്ണിൽ എ ത്ര നേരം രൂക്ഷ ദൃഷ്ടി ആകാതെ നോക്കാൻ കഴിയും എന്നതാണ് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ആരോഗ്യകരവും ആത്മവിശ്വാസം നിറഞ്ഞതുമായ നോട്ടം 2 അല്ലെങ്കിൽ 3 സെക്കൻഡിൽ കൂടുതൽ ആവരുത് എന്നാണ് ഓരോരുത്തരുടെയും സാംസ്കാരിക നിബന്ധനകൾ തൊഴിൽപരമായ ബോധം എന്നിവയെ അടിസ്ഥാനമാക്കി അവരുടെ ശരീരത്തിൽ സ്വതവേയുള്ള ഒരു സമയസൂചിക അവരുടെ മുന്നിലെ പരിധി കടന്നു പോകാതെ നിയന്ത്രിക്കുന്നു വിവിധ തരം അവസ്ഥകളെ കുറിച്ച് നോക്കുമ്പോൾ നേത്ര സമ്പർക്കത്തിന്റെ പൂർണ്ണമായ അഭാവം അവിടെയും ഇവിടെയും നോക്കിയുള്ള സംസാരം കണ്ണിൽ വെറുതെ നോക്കിയുള്ള സാദാ സംസാരം ഓരോ അവസ്ഥയിലും മാറി വരുന്ന അത്തരത്തിലുള്ള നോട്ടത്തിന്റെ അർഥം എന്നിവയെ കുറിച്ചും നോക്കി കാണേണ്ടതുണ്ട് ഉദാഹണത്തിനു് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ഉള്ള സാധാരണ ഒരു നോട്ടത്തെയും തികച്ചും സ്വകാര്യമായ ഒരു സമയത്തുള്ള നോട്ടത്തേയും തമ്മിൽ വേർതിരിക്കേണ്ടതു ണ്ട് തൊഴിലിടങ്ങളിൽ ഉള്ള നോട്ടത്തിന്റെ വ്യാഖ്യാനം ലക്ഷ്യാർഥം എന്നിവയെ കുറിച്ച് നോക്കാം വലതുവശത്ത് മൂലയിൽ ഉള്ള ചിത്രത്തിൽ കാണുന്നത് പോലെ നോട്ടം എന്നത് നെറ്റി കണ്ണ് തുടങ്ങിയവയെ ലക്ഷ്യമാക്കി ആണ് തെറ്റായ അർഥം തോന്നിപ്പിക്കാത്ത തരത്തിൽ തികച്ചും പരസ്പര താൽപര്യങ്ങളെ കാണിക്കുന്ന തരത്തിൽ ഉള്ള ഒരു അഭിപ്രായം ആണ് ഇതിലൂടെ നൽകാൻ നാം ആഗ്രഹിക്കുന്നത് നോട്ടം എന്നത് പെട്ടെന്നുള്ളതാണ് ഒരാളുമായി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നേത്ര സമ്പർക്കം തുടങ്ങുന്നു ഇത് വ്യാപാര ഇടപാടുകൾ ജോലി സംബന്ധമായ അവസ്ഥകൾ എന്നിവിടങ്ങളിൽ കാണാവുന്നതാണ് സൂക്ഷ്മ നോട്ടത്തിന് പ്രാധാന്യം ഉണ്ട് കാരണം നമ്മുടെ സമ്മതം വിശ്വാസ്യത സത്യസന്ധത എന്നിവയെല്ലാം നമ്മുടെ സൂക്ഷ്മ നോട്ടത്തെ അടിസ്ഥാനം ആക്കുന്നു അതുകൊണ്ട് വ്യവസായപരമയ സന്ദർഭങ്ങളിൽ നമ്മുടെ ദൃഷ്ടി മൂക്കിനു താഴേക്ക് പോകാതെ നെറ്റി കണ്ണുകൾ എന്നിവയിൽ കേന്ദ്രീകരിക്കുക രണ്ടാമത്തെ തരം നോട്ടം എന്നത് സാമൂഹികവും സൌഹാർദ്ദപരവും ആണ് ഇതിൽ ഭീതിജനകമായ ഒന്നും തന്നെ ഇല്ലായെങ്കിലും വ്യവസായ രംഗത്തുളളതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കണ്ണ് വായ് തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം നോട്ടങ്ങൾ നൈമിഷികമാണ് കൂടാതെ ചില സന്ദർഭങ്ങളിൽ ഈ നോട്ടം കഴുത്തിലേക്ക് കൂടി പോകുന്നു അതുകൊണ്ട് തന്നെ വളരെ അടുപ്പമുള്ളവരുമായി ഈ നോട്ടം പങ്കിടപ്പെടുന്നൂ ഇത്തരത്തിലുള്ള നോട്ടത്തിലൂടെ നാം സാമൂഹ്യ പരമായി ഇണങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്രഭാഗങ്ങൾ ആകുന്നത് കണ്ണും അധരവും ആണ് കാരണം ഇത് സാമൂഹ്യ സമ്പർക്കത്തിന്റെയും സംഭാഷണത്തിന്റെയും സമയമാണ് അടുപ്പം നിറഞ്ഞ് നിൽക്കുന്ന നോട്ടം വളരെ സ്വകാര്യമായ ഒന്നാണ് ഇത്തരത്തിൽ ഉള്ള നോട്ടത്തിൽ മറ്റൊരാളെ അപൂർണ്ണമായ ദൃശ്യമായി കാണേണ്ടത് അനിവാര്യമാണ് സംഭാഷണത്തിനുള്ള ഒരു ക്ഷണം കൂടിയാണ് ഇത് ഇതിലൂടെ ഒരാളുടെ ആകർഷണത്തെ കാണിക്കുന്നു എങ്കിലും അമിതമായാൽ കാണുന്ന വ്യക്തിക്ക് അസഹ്യമായി തോന്നുകയും ചെയ്യും പലപ്പോഴും മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനായി ഇത്തരത്തിലുള്ള നോട്ടം ദുരുപയോഗം ചെയ്യുന്നു ഒരാളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള ഒരു വഴി കൂടിയാണ് ഇത് ആകർഷിക്കുന്നതിനും ഭയപ്പെടുത്തുന്നതിനും തമ്മിൽ ഒരു നേരിയ രേഖ മാത്രമേയുള്ളൂ എന്നിരിക്കെ തികച്ചും അനൌപചാരികമായ അവസരങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് വലം കൈയ്യനായ ഒരാളുടെ നോട്ടത്തിന്റെ ദിശയിൽ നിന്നും അയാളുടെ ചിന്തയുടെ ഗതി കണ്ടെത്താൻ സാധിക്കും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും ചെറിയ സംഘങ്ങളുമായുള്ള സംഭാഷണത്തിലും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും കാര്യങ്ങളെ നോക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമ്പോഴും എല്ലാം സഹായകമാകുന്നു വലം കയ്യനായ ഒരാളുടെ നോട്ടം മുകളിലേക്ക് ആണെങ്കിൽ അയാളുടെ ചിന്ത ദൃശ്യത്തെ സംബന്ധിച്ച് നീങ്ങും എന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഏത് നിറം കാർ ആണ് ഞാൻ വാങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഞാൻ സഞ്ചരിച്ച ആ കാറിന്റെ നിറം എന്തായിരുന്നു എന്നിവ ആയിരിക്കാം ഞാൻ ചിന്തിക്കുന്നത് ആ ആളുടെ നോട്ടം നേരെ ആണെങ്കിൽ ശ്രവണെന്ദ്രിയ സംബന്ധിയായ കാര്യം ആയിരിക്കും അയാളുടെ ചിന്ത കുട്ടിക്കാലത്ത് എനിക്ക് ഇഷ്ടമായിരുന്ന പാട്ടുകൾ ഓർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ചില വാക്കുകൾ ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു അങ്ങനെ നോട്ടം ആ ദിശയിലേക്ക് പോകുന്നു ഇനി താഴേക്ക് ആണെങ്കിൽ ചിന്ത ബന്ധപ്പെട്ടിരിക്കുന്നത് തീരുമാനങ്ങളിൽ ആണ് ഞാൻ ഏതോ വികാരത്തെ കുറിച്ച് ചിന്തിക്കുകയാണോ ഞാൻ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇതും രണ്ട് തരത്തിൽ ഉണ്ട് ചില ദൃശ്യങ്ങളിലൂടെ വലം കയ്യനായ ഒരാളുടെ നോട്ടത്തിന്റെ ദിശയുടെ പ്രാധാന്യം കണ്ടെത്താം വലം കൈയ്യരായ ആളുകൾക്ക്മാത്രമേ ഈ ദിശകൾ ബാധകമുള്ളു എന്ന് പ്രത്യേകം ശ്രദ്ധിയ്ക്കുക ആദ്യത്തെ ചിത്രത്തിൽ നിന്നും ഇതിൽ ദൃശ്യ സംബന്ധിയായ ഓർമ്മയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നോട്ടത്തിന്റേ ദിശയിൽ നിന്നും വ്യക്തമാണ് ആ വ്യക്തി ഏതോ ചിത്രമാണ് ഓർത്തെടുക്കുന്നത് രണ്ടാമത്തേതിൽ നോട്ടം സമാന്തരമായി നിൽക്കുന്നതിൽ നിന്നും ശബ്ദമാണ് ഓർത്തെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം മൂന്നാമത്തേത് നോട്ടം താഴേക്ക് ആണ് നോട്ടം താഴെ വലത്തേക്കാണെങ്കിൽ അയാൾ ഏതോ വികാരത്തെ കുറിച്ച് ഓർമിക്കുന്നു ഒരു തീരുമാനം എടുക്കേണ്ട സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള നോട്ടം നമുക്ക് സാധാരണയായി കാണാവുന്നതാണ് ഇത് വളരെ സൂക്ഷ്മമായ ഒരു മുഖഭാവം ആണെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുന്നതിനു മുൻപ് ഈ നോട്ടം തീർച്ചയാണ് നോട്ടം ഇടത്തോട്ട് ആണെങ്കിൽ നാം നമ്മോട് തന്നെ സംസാരിക്കുകയായിരിക്കാം നമ്മുടെ ചില വികാരത്തെ പറ്റി സ്വയം പറയുകയാകാം ഈ ഗവേഷണം ആദ്യമായി ഏറ്റെടുത്തത് ഗ്രൈൻഡറും ബാൻഡ്ലേറും സിദ്ധാന്തത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചു ഇത് മറ്റുള്ളവരുമായി നടത്തുന്ന സംവാദത്തിന്റെ സത്യസന്ധത തിരിച്ചറിയാൻ സഹായിക്കുന്നു ഇത് മറ്റുള്ളവരുടെ പ്രചോദനത്തിന്റെ അളവും വിധി തീർപ്പിന്റെ ഘട്ടം ഏതാണ് എന്ന് മനസ്സിലാക്കുവാനും സഹായിക്കുന്നു ഈ ദൃശ്യം നേത്ര സമ്പര്ക്കതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ളതാണ് നമ്മുടെ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിലായി നാം പല പല കാര്യങ്ങളും സൂക്ഷിക്കുന്നു ഓരോ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഒരു പ്രത്യേക ദിശയിലേക്ക് പോകുന്നു ദൃശ്യ രൂപത്തിൽ ഒരു കാര്യം ഓർമ്മിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു പക്ഷെ കുട്ടിക്കാലത്ത് കൂട്ടുകാരോട് ഒപ്പം കളിക്കുന്നത് അവർ ഇടത് വശത്തേക്ക് നോക്കി ഓർമ്മിച്ചെടുക്കും പക്ഷേ കണക്ക് കൂട്ടുവാനോ മറ്റുമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അവർ മുകളിൽ വലത് വശത്തേക്ക് നോക്കും ആളുകൾ വികാരാധീനായി ഇരിക്കുകയോ വിഷമിച്ചിരിക്കുകയോ ആണെങ്കിൽ താഴേക്ക് ദൃഷ്ടി താഴ്ത്തും വലത് വശത്തേക്ക് നിരവധി പേർ നോക്കുന്നുണ്ടാവാം സ്വയം സംസാരിക്കുമ്പോൾ അവർ താഴേക്ക് ഇടത് വശത്തേക്ക് നോക്കുന്നു എന്തിന്റെ എങ്കിലും ഉത്തരം കണ്ടെത്തുമ്പോൾ സമാന്തരമായി ശ്രവണ സംബന്ധമായ മാർഗ്ഗം ഉണ്ട് വെളുപ്പിന് 3 മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പൂച്ചയോ മറ്റോ ശബ്ദം ഉണ്ടാക്കിയാൽ അത് പരിചിതം ആയതിനാൽ നിങ്ങള് ഇടത് വശത്തേക്ക് നോക്കും എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ശബ്ദം ആണെങ്കിൽ നിങ്ങൾ വലത് വശത്തേക്ക് നോക്കുകയും അതെന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും ആളുകളുടെ ശ്രദ്ധ നിയന്ത്രിക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമാണ് കണ്ണുകൾ അവ പഠനത്തിന്റെ വളർച്ച രേഖയെ സംബന്ധിച്ച് ഉള്ളവയാണ് എങ്കിലും അതിലുപരിയായി പ്രേക്ഷകരെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഉപകരണം ആണ് കണ്ണുകൾ പഠന രേഖയിൽ 81 നമ്മെ ആശ്രയിച്ചാണ് 11 കേൾവിയെയും 6 മറ്റ് ഇന്ദ്രിയങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ശ്രവ്യ ദൃശ്യ ഘടകങ്ങൾ അടങ്ങിയ അവതരണം മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കുന്നു ഒരാൾ സംസാരിച്ചതിന്റെ 50 കാര്യങ്ങളും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അത് വഴി സാധിക്കുന്നു മറ്റൊരു വശത്ത് അവതരണമോ ചർച്ചയോ ശ്രവണ രൂപത്തിൽ മാത്രം ആണെങ്കിൽ 10 മാത്രമേ ഓർമയിൽ നിലനിർത്തുന്നുള്ളു അതേ സമയം ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണ് എങ്കിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുന്നു ഇതാണ് ദൃശ്യ ശ്രവ്യ അവതരണത്തിലൂടെ സംഭവിക്കുന്ന ഓർമ്മയുടെ കാരണം മറ്റൊരു പ്രധാന ഘടകം ആണ് നോട്ടത്തിന്റെ തീവ്രത തീവ്രമായ നോട്ടം ദീർഘനേരം നിൽക്കുന്നതും സൌഹാർദ്ദപരമായ ഒരു ശരീരചലനമോ മുഖഭാവമോ ഇല്ലാത്തതുമാണ് സാധാരണയായി ദേഷ്യം സംശയം ഭീഷണി തുടങ്ങിയവ ആണ് ഇതിൽ നിന്നും പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെ ശരീര ഭാഷാ സൂചനകൾ കൂടി മുൻ നിർത്തി മാത്രമേ നോട്ടത്തിന്റെ അർഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ രൂക്ഷമായ നോട്ടം പോലെ തന്നെയാണ് ശ്രദ്ധയുളള നോട്ടവും എന്നാൽ ഇത് താരതമ്യേന തീവ്രത കുറഞ്ഞതും സൌഹാർദ്ദം താൽപര്യം ആകാംഷ എന്നിവയെ കാണിക്കുന്നതുമാണ് ഇത് തീവ്രം എന്നതിലുപരി മൃദുവായ മുഖ ഭാവം പുഞ്ചിരി മിതമായ ശരീര ചലനം എന്നിവ കൊണ്ട് ഹൃദ്യമാണ് മൃദുവും നിയന്ത്രിതവുമായ നേത്ര സമ്പർക്കം അധികം സുദീർഘമല്ലാത്തതും വളരെ മിതവും സ്നേഹം നിറഞ്ഞതുമായ മുഖ ഭാവത്തെ ചേർന്നുമാണ് വരുന്നത് ഇത് സാധാരണ സൌഹൃദപരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു നിരന്തരമായി ബന്ധം സ്ഥാപിക്കുകയും വിച്ഛേദിക്കുകയും തമ്മിൽ നേത്ര ബന്ധം നിലനിർത്തുന്ന സമയം കുറവും വിച്ഛേദിക്കുന്ന സമയം കൂടുതലുമാണ് എങ്കിൽ അതിനെ വ്യതിചലിക്കുന്ന നേത്രസമ്പർക്കമായി കരുതാം വ്യഗ്രത വിയോജിപ്പ് അകൽച്ച മടുപ്പ് എന്നിവയെ ഇത് കാണിക്കുന്നു മൃദുവായ നേത്ര സമ്പർക്കം യോജിപ്പിനേ കാണിക്കുന്നു സംഭ്രന്തമായ കണ്ണുകൾ എതിരായ അഭിപ്രായം ജനിപ്പിക്കുന്നു ഇവയെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് രണ്ടു പേർ തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രത്യേകിച്ചും നേത്ര സമ്പർക്കത്തിന്റെ തെളിവുകൾ എതിരായ അർഥം നൽകുന്നു ചെറിയ സംഘങ്ങളിൽ നേത്ര സമ്പർക്കം പുലർത്താൻ വിസമ്മതിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറുന്ന കണ്ണുകൾ ഒരു പക്ഷെ ക്ഷണികമോ തുടരെ തുടരെ വരുന്നതോ വിരളമായി വരുന്നതോ ഇവ കൂടിച്ചേർന്ന് വരുന്നതോ ആകാം ഇത് പ്രതിഫലിപ്പിക്കുന്നത് എതിരായ വികാരത്തെ ആണ് ഇതിന് പിന്നിൽ ആ വ്യക്തി ഒരു പക്ഷേ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നതോ പേടിയോ മടുപ്പോ താൽപര്യം ഇല്ലയ്മയോ ആ സാഹചര്യത്തോട് ഉള്ള വിദ്വേഷമോ ഒക്കെ ആകാം നേത്ര സമ്പർക്കത്തിന്റ സുതാര്യതയുടെ സാംസ്കാരിക വശവും പ്രധാനമാണ് കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയെ കുറിച്ച് നാം കണ്ടതാണ് അതിനാൽ ചില പ്രത്യേക സംസ്കാരത്തിൽ വെച്ച് അവർ തങ്ങളുടെ നാടിന്റെ സാമൂഹിക അവസ്ഥകൾക്ക് അനുസരിച്ച് വക്താവിനോടുള്ള ആദര സൂചമായി മനപ്പൂർവ്വം നേത്രസമ്പർക്കം ഒഴിവാക്കുന്നു എന്ന് മനസ്സിലാക്കാം തുറിച്ച് നോക്കുക എന്നത് തീർത്തും മറ്റൊരു അവസ്ഥയാണ് ഇതൊരിക്കലും തൊഴിൽപരമായ സാഹചര്യത്തിൽ പെടുന്നതല്ല ഒരു നിശചിത സമയത്തിൽ കൂടുതൽ ഒരാളെ നോക്കിക്കൊണ്ടിരുന്നത് അല്പം വിചിത്രവും ഒരു പക്ഷെ ഭീഷണിയായും അസഹനീയമായും തോന്നാവുന്നതും ആണ് ചില സമയം ഇത്തരം തുറിച്ചുനോട്ടങ്ങൾ വഞ്ചനയുടെ ലക്ഷണമായും കാണപ്പെടുന്നു തന്റെ എതിരെ നിൽക്കുന്നവൻ സത്യസന്ധനും വിശ്വസ്തനും ആയ ഒരാളും താൻ സ്വയം ഒരു നുണയനും ആകുന്ന സാഹചര്യത്തിൽ നോട്ടം ഉറപ്പിച്ച് നിർത്തുവാൻ അയാൾ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇത്തരം തെറ്റായ ധാരണ ജനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നോട്ടം ദീർഘിപ്പിക്കുന്നതുവഴി കാണുന്നയാൾക്ക് അതിൽ സംശയം ഉണ്ടാക്കുന്നു ചില നേരങ്ങളിൽ ഇത് ആകാംക്ഷ മൂലം ഉണ്ടാക്കുന്നത് ആകാം ഉദാഹരണത്തിന് ഒരു കുട്ടി കുറേ നേരം ഒരു പ്രതിഭാസത്തെ നോക്കി നിൽക്കുന്നത് എന്നിരുന്നാലും സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇതിന് വരുന്ന മാറ്റങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് നിഷ്കളങ്കമായ നോട്ടം പോലും ഒരു പക്ഷെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള വ്യത്യാസങ്ങൾ നേത്ര സമ്പർക്കത്തിന്റെ വ്യാഖ്യാനത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് കൃത്യമായ നേത്രസമ്പർക്കം ഒരു നല്ല സംഭാഷണത്തിൽ പ്രധാനമാണ് കൃത്യമായ നേത്ര സമ്പർക്കം ഒരാളുടെ ആത്മവിശ്വാസത്തെ കാണിക്കുന്നു ഇത്തരത്തിൽ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നവരിലേക്ക് ആളുകൾ ശ്രദ്ധ നൽകുന്നു കാരണം ഇതിലൂടെ ഉറപ്പും വിശ്വാസ്യതയും പകർന്നു കിട്ടുന്നു തുറന്ന ദൃഢമായ നോട്ടം വിശ്വാസ്യതയെ കാണിക്കുമ്പോൾ പരിഭ്രാന്തമായ കണ്ണുകൾ വഞ്ചനയെയും അസത്യത്തെയും സൂചിപ്പിക്കുന്നു ഇത് ഒരു പക്ഷെ തീർത്തും ഒരു സങ്കല്പത്തെ മുൻ നിർത്തിയാണ് എന്ന് പറഞ്ഞ് ഇതിനെ മാറ്റിനിർത്താം എന്നാൽ ഇത് പൊതുവായുള്ള ധാരണയാണ് ഇത്തരം പരസ്പര ബന്ധപ്പെടുത്തലിൽ കൂടിയാണ് ആളുകൾ തീരുമാനം എടുക്കുന്നത് ഉദാഹരണത്തിന് വിൽപന സാധനവുമായി വരുന്നയാളുടെ കണ്ണുകൾ നോക്കി നാം ഇടപാടുകൾ നടത്തുന്നു പൊതുവായുള്ള ഒരു അഭിപ്രായത്തിനായുള്ള കൂടിച്ചേരൽ എന്നിവയിൽ എല്ലാം കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഒരാളിൽ നാം വിശ്വസം അർപ്പിക്കുന്നു പഠനങ്ങൾ തെളിയിക്കുന്നത് ആത്മവിശ്വാസം കുറവുള്ള സാഹചര്യത്തിലും ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി ശക്തമായ നേത്രസമ്പർക്കം സ്ഥാപിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ നമ്മളെ കാര്യക്ഷമതയും ആത്മവിശ്വാസവും നൈപുണ്യവും ഉള്ളവരായി കണക്കാക്കിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ ഈ സവിശേഷതകൾ ഒന്നും തന്നെ നമ്മുടെ കൈവശം ഇല്ലായിരിക്കാം അതുകൊണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ദൃഢമായ ഒരു നേത്ര സമ്പർക്കം സ്ഥാപിക്കുന്നത് വഴി നമ്മിൽ ശക്തമല്ലാത്ത ആത്മവിശ്വാസം പോലും പുറത്ത് പ്രകടിപ്പിക്കുവാൻ സാധിക്കും എന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത് നുണ പറയുന്ന വ്യക്തി തികച്ചും സ്വാഭാവികമായി പെരുമാറാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ആവശ്യത്തിലധികം ദീർഘമായ നേത്ര ബന്ധം നിലനിർത്തുന്നു എന്നാണ് അവർ ഒരു നല്ല നേത്ര സമ്പർക്കം സ്ഥാപിച്ചു വിശ്വാസ്യത നിലനിർത്തുവാൻ ശ്രമിക്കുന്നു എന്നാൽ ആത്മാർത്ഥത നിലനിർത്തുവാനുള്ള ശ്രമത്തിൽ പലപ്പോഴും അമിത നേത്രബന്ധം പുലർത്തി ഇവർ മറ്റുള്ളവരിൽ അവിശ്വാസം ജനിപ്പിച്ചേക്കാം ഈ ദൃശ്യത്തിൽ നേത്ര സമ്പർക്കത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് പോസിറ്റീവ് ശരീര ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് നോക്കാം ഉപഭോക്താക്കളുമായി കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആളുടെ വിൽപന അങ്ങനെ അല്ലാത്തവരെ അപേക്ഷിച്ച് കൂടുതലായി നടക്കുന്നു ആശുപത്രികളിൽ വരുന്ന രോഗികളുടെ പരാതികളിൽ 80 ശതമാനവും ഡോക്ടറുടെ നേത്ര സമ്പർക്കത്തിന്റെ അഭാവം ചൂണ്ടി കാണിക്കുന്നു ഈ ദൃശ്യം ഒരാളുടെ കണ്ണുകളിൽ ഉള്ള സൂക്ഷ്മ ഭാവത്തെ നോക്കി അവർ സത്യം ആണോ പറയുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് കാണിക്കുന്നു സത്യം പറയുന്നവർ കൂടുതൽ വിവരങ്ങളുമായി മുന്നിട്ട് വരുമ്പോൾ അസത്യം പറയുന്നവർ സ്വതവേ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നു ഒരാളുടെ മുഖത്ത് മിന്നി മറയുന്ന സൂക്ഷ്മ ഭാവത്തെ നോക്കാൻ ശ്രമിക്കുക എന്ന് ഫ്രഷ്മാൻ പറയുന്നു 2008ലെ ഒരു പഠനം കാണിക്കുന്നത് കൃത്രിമത്വം ഉള്ള മനോവികാരം ഉള്ളവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായി കണ്ണുകൾ ചിമ്മുന്നു എന്നാണ് നേത്ര സമ്പർക്കത്തിൽ കൃഷ്ണമണിയും പ്രധാനമാണ് ഒരു പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മുടെ കൃഷ്ണമണിയെ നിയന്ത്രിക്കുവാൻ സാധിക്കില്ല ഒരു നിശ്ചിത സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ നിലപാടും മനോഭാവവും മാറുന്നത് അനുസരിച്ച് കൃഷ്ണമണി വലുതാകുകയും ചുരുങ്ങുകയും ചെയ്യുന്നു സ്വതവേ ഉള്ള വലുപ്പത്തിന്റെ നാല് മടങ്ങ് വരെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ കൃഷ്ണമണി വലുതാകുന്നു അത് പോലെ വിഷാദാവസ്ഥയിൽ കണ്ണുകൾ വളരെ അധികം ചുരുങ്ങുകയും ചെയ്യുന്നു ഈ ചിത്രത്തിൽ വലുതും ചുരുങ്ങിയതും ആയ രണ്ട് കൃഷ്ണമണികൾ തമ്മിലുള്ള വ്യത്യാസം കാണാം ഇടത്തേ കണ്ണിലെ കൃ്ണമണി വലുതും വലത്ത് കണ്ണിലേത് ഞെരുങ്ങിയതും ആണ് ഇക്കാർഡ് ഹെസ്സ് പറയുന്നത് നാം സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തിയോട് താൽപര്യം ഉണ്ടെങ്കിൽ കൃഷ്ണമണി വലുതാകും എന്നാണ് നിരവധി ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തിന്റെ കൃഷ്ണമണിയെ വെച്ച് ഒരു ചെറിയ പരീക്ഷണം നടത്താവുന്നതാണ് അവർക്ക് താൽപര്യമുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞ് തീർത്തും അപ്രിയമായ കാര്യങ്ങളിലേക്ക് സംസാരം തിരിക്കുക അപ്പോൾ അയാളുടെ കൃഷ്ണമണി വേഗത്തിൽ ചുരുങ്ങുന്നത് കാണാം അതുകൊണ്ട് തന്നെ നേത്ര സമ്പർക്കം പഠിക്കുമ്പോൾ കൃഷ്ണമണിയും പ്രധാനമാണ് ഈ ചിത്രത്തിൽ രണ്ട് കണ്ണുകൾ കാണാം ഒന്നിൽ ചുരുങ്ങിയ കൃഷ്ണ മണിയും മറ്റൊന്നിൽ വലുതും ചുരുങ്ങിയ കൃഷ്ണമണി സൂചിപ്പിക്കുന്നത് ചുറ്റും നടക്കുന്ന കാര്യത്തോടുള്ള വിരസതയാണെങ്കിൽ വലുതായ കൃഷ്ണമണി കാണിക്കുന്നത് ശ്രദ്ധയും താൽപര്യവുമാണ് ഈ ദൃശ്യത്തിലും നേത്ര സമ്പർക്കത്തേ കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങളെ കാണാം നുണ പറയുന്നതിന്റെ ഏറ്റവും ആദ്യ അടയാളം ആണ് വെപ്രാളം കാണിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്മായി നിരീക്ഷിക്കുക കാലുകൾ ഇളക്കുകയോ മുടിയിൽ പിടിച്ച് കളിക്കുകയോ വാച്ചും വസ്ത്രവും പിടിച്ചിടുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അത് കാപട്യത്തിന്റെ ശക്തമായ സൂചനകളാണ് നുണ പറയുന്നവൻ കണ്ണിൽ നോക്കില്ല എന്നാൽ വലുതാകുന്ന കൃഷ്ണമണി നുണയുടെ സൂചന ആണെന്ന് നിങ്ങൾക്ക് അറിയുമോ കൂടി വരുന്ന സമ്മർദവും ശ്രദ്ധയും കാരണം ആകാം അത് സംഭവിക്കുന്നത് നേത്ര സമ്പർക്കത്തിന്റെ ചില അടിസ്ഥാന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നാം ചർച്ച ചെയ്തത് ഇത് അടുത്ത ഭാഗത്ത് തുടരുന്നതാണ്